ഓൺലൈൻ സോഷ്യൽ മീഡിയയിലെ സ്വകാര്യതയും സുരക്ഷയും എന്ന എൻപിറ്റിഇഎൽ കോഴ്സിലേക്ക് സ്വാഗതം ഇത് 9 ആമത്തെ ആഴ്ച്ച ആണ് അതിനാൽ ഇന്നും ഈ ആഴ്ചയിലും നമ്മൾ ചെയ്യേണ്ടത് പേപ്പറുകൾ തന്നെ നോക്കുന്നതിനും പേപ്പറിൽ കടന്നുപോകുന്ന വ്യത്യസ്തമായ സാങ്കേതിക വിദ്യകളുടെ അടിസ്ഥാനത്തിലും നടത്തിയ ചില ഗവേഷണങ്ങൾ നമ്മൾ നോക്കും എന്നതാണ് അടുത്ത രണ്ട് മണിക്കൂറുകൾ നിങ്ങൾ നടത്തിയ വിശകലനം യഥാർത്ഥത്തിൽ രസകരമായ ചില നിഗമനങ്ങളിൽ എങ്ങനെ എത്തിച്ചേരുന്നു എന്ന് മനസ്സിലാക്കാൻ ഈ വിഷയത്തിൽ എഴുതിയ ഗവേഷണ പ്രബന്ധങ്ങളെ നിങ്ങൾ കോഴ്സിലുടനീളം നടത്തിയ അതേ വിശകലനത്തിലൂടെ നമ്മൾ കടന്നുപോകുക എന്നതാണ് ഇവിടെ ലക്ഷ്യം ആളുകൾ എവിടെ തുടങ്ങുന്നു എങ്ങനെയാണ് അവർ ഒരു പേപ്പർ എഴുതുന്നത് എന്തൊക്കെ കാര്യങ്ങൾ പേപ്പറിൽ ഉൾക്കൊള്ളുന്നു അവർ അടിസ്ഥാനപരമായി ചെയ്ത എല്ലാ വിശകലനങ്ങളും അത് നിങ്ങൾ മുമ്പ് കണ്ടിട്ടുള്ളത് തന്നെ ആണ് എന്നാൽ പേപ്പറിൻറ്റെ ഘടനയുടെ അടിസ്ഥാനത്തിൽ തന്നെ അവയിൽ ചിലത് നമ്മൾ പരിശോധിക്കും അതിനാൽ ലൊക്കേഷൻ നമ്മൾ കടന്നുപോകുന്ന ആദ്യ വിഷയം ലൊക്കേഷൻ അധിഷ്ഠിത സ്വകാര്യതാ പ്രശ്നങ്ങളാണ് ഓൺലൈൻ സോഷ്യൽ മീഡിയയിലെ ലൊക്കേഷൻ അധിഷ്ഠിത സേവനങ്ങൾ വാസ്തവത്തിൽ ധാരാളം ഉണ്ട് ഫോഴ്സ്ക്വയർ യെൽപ് ഗോവല്ല ഫേസ്ബുക്ക് ട്വിറ്റർ പോലുള്ളവ വളരെ പ്രശസ്തമാണ് ലൊക്കേഷൻ അടിസ്ഥാനമാക്കിയുള്ള സേവനങ്ങൾ നൽകുന്ന കാര്യത്തിൽ വളരെ പ്രചാരമുള്ള വ്യത്യസ്ത സോഷ്യൽ മീഡിയകൾ ആണിവ ഉദാഹരണത്തിന് ഫോർസ്ക്വയറിൽ നിങ്ങൾ സഞ്ചരിക്കുന്ന ദിശയിലെ അടുത്ത പെട്രോൾ പമ്പ് എവിടെയാണെന്ന് നിങ്ങൾക്ക് കാണാൻ കഴിയും രണ്ടാമതായി യെൽപ് ൽ നിങ്ങൾക്ക് താൽപ്പര്യമുള്ള ഭക്ഷണശാലകളോ സ്ഥലങ്ങളോ നോക്കാം അവയ്ക്ക് ഏതുതരം അവലോകനങ്ങളാണുള്ളത് ഫേസ്ബുക്ക് ൽ ആണെങ്കിൽ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ ഒരു ലൊക്കേഷനിൽ ചെക്ക് ഇൻ ചെയ്യാൻ പോലും സാധിക്കും അതുപോലെ നിങ്ങൾക്ക് ട്വിറ്ററിൽ പങ്കിട്ട ജിയോ ലൊക്കേഷൻ വിവരങ്ങൾ കാണാം അതിനാൽ XYZ എന്ന വ്യക്തി ഡൽഹിയിലെ T3 ഇന്ദിരാഗാന്ധി വിമാനത്താവളത്തിൽ XYZ സ്ഥലത്തേക്ക് യാത്ര ചെയ്യുന്നത് പോലെ ഫേസ്ബുക്ക് ൽ നിന്നുള്ള ആളുകളുടെ ചെക്ക് ഇൻ നിങ്ങൾ കണ്ടിരിക്കണം അപ്പോൾ അതാണ് ലൊക്കേഷൻ അധിഷ്ഠിത സേവനം നിങ്ങൾ നിങ്ങളുടെ ഫോൺ തുറക്കുന്നു നിങ്ങൾ ഈ ലൊക്കേഷൻ പരിശോധിക്കുന്നു അല്ലെങ്കിൽ ലൊക്കേഷൻ അപ്ഡേറ്റ് ചെയ്തുകൊണ്ട് ഈ സ്റ്റാറ്റസ് അപ്ഡേറ്റ് പോസ്റ്റ് ചെയ്യുന്നു ഫോഴ്സ്ക്വയർ യെൽപ് ഇവ വളരെ ജനപ്രിയമായ സേവനങ്ങളാണ് അവ യഥാർത്ഥത്തിൽ ലൊക്കേഷൻ അധിഷ്ഠിത സേവനങ്ങൾ ചെയ്യുന്നു ഇവയെ ലൊക്കേഷൻ അധിഷ്ഠിത സോഷ്യൽ നെറ്റ്വർക്കുകൾ എന്ന് വിളിക്കുന്നു അതിനാൽ തീർച്ചയായും അവയ്ക്കെല്ലാം ഒരുതരം സ്വകാര്യത ആശങ്കകളുമുണ്ട് ലൊക്കേഷൻ അധിഷ്ഠിത സേവനങ്ങളിലെ സ്വകാര്യതാ ആശങ്കകൾ നിങ്ങൾ ഇതിനകം മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് എനിക്ക് ഉറപ്പുണ്ട് എവിടെയാണ് എന്റെ ലൊക്കേഷൻ പങ്കിടുന്നത് എന്റെ ലൊക്കേഷൻ പങ്കിടുകയാണെങ്കിൽ അതനുസരിച്ച് ആശങ്കകൾ ഉണ്ടാകും അതായത് ഞാൻ എവിടെയാണെന്ന് മറ്റാരെങ്കിലും മനസ്സിലാക്കും വിവരങ്ങൾ പൊതുവായി നൽകിയിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ കൂടുതൽ ആളുകൾക്ക് നിശ്ചിത സമയത്ത് നിങ്ങളുടെ സുഹൃത്തുക്കളേക്കാൾ കൂടുതൽ നിങ്ങളുടെ ലൊക്കേഷനിലേക്ക് ആക്സസ് ലഭിക്കും ശെരി അല്ലെ അതിനാൽ അതാണ് സ്വകാര്യതാ ആശങ്ക തീർച്ചയായും ഈ സോഷ്യൽ മീഡിയ സേവനങ്ങളിൽ ഓരോന്നിനും അതിന്റേതായ സ്വകാര്യതാ ആശങ്കകളും ഉണ്ടായിരിക്കും അതിനാൽ യഥാർത്ഥത്തിൽ ഈ ലൊക്കേഷൻ അധിഷ്ഠിത സേവനങ്ങളുടെ അടിസ്ഥാനത്തിൽ നിങ്ങൾക്ക് എന്തെല്ലാം ധാരണകളാണുള്ളതെന്ന് മനസിലാക്കാൻ നിങ്ങൾ ഓർക്കുന്നുവെങ്കിൽ മുൻ പ്രഭാഷണങ്ങളിലും ഞാൻ പരാമർശിച്ച ഒരു പഠനം ഉണ്ടായിരുന്നു 10427 ആളുകളോട് സ്വകാര്യതയുടെ വിവിധ വശങ്ങളെക്കുറിച്ച് ചില ചോദ്യങ്ങൾ ചോദിച്ചതിൻറ്റെ അടിസ്ഥാനത്തിൽ ആണത് അതിൽ ഒരു വിഭാഗം ഓൺലൈൻ സോഷ്യൽ മീഡിയ ആയിരുന്നു ഇവിടെ പഠനത്തിൽ ചോദിച്ച ഒരു ചോദ്യമുണ്ട്അത് ഇതാണ് ഫേസ്ബുക്കിലെ ഇനിപ്പറയുന്ന വിവരങ്ങൾക്ക് നിങ്ങൾക്ക് എന്ത് സ്വകാര്യതാ ക്രമീകരണങ്ങളുണ്ട് ദയവായി നിങ്ങളുടെ പ്രതികരണങ്ങൾ നിങ്ങൾക്ക് അറിയാവുന്നിടത്തോളം നന്നായി നൽകുക ലൊക്കേഷൻ പങ്കിട്ടിട്ടില്ല സുഹൃത്തുക്കൾ സുഹൃത്തുക്കളുടെ സുഹൃത്തുക്കൾ നെറ്റ്വർക്ക് എല്ലാവരും കൂടാതെ ഞാൻ ഇത് ഇഷ്ടാനുസൃതമാക്കി ഇവയാണ് ചോദ്യത്തിനുള്ള വ്യത്യസ്ത ഓപ്ഷനുകൾ നിങ്ങൾ ഓരോരുത്തരും ഇതിൽ ഏതുകൂട്ടത്തിൽ പെടുമെന്ന് എനിക്കറിയില്ല പക്ഷേ നിങ്ങൾ നോക്കിയാൽ ഈ പ്രത്യേക ചോദ്യത്തിന് ലഭിച്ച പ്രതികരണങ്ങളുടെ ഒരു വിതരണം ഇതാ 33 ശതമാനം സുഹൃത്തുക്കൾക്ക് സുഹൃത്തുക്കളുടെ സുഹൃത്തുക്കൾ 12 5 ശതമാനം നെറ്റ്വർക്ക് 5 7 എല്ലാവർക്കും 39 ശതമാനവും കസ്റ്റമൈസ്ഡ് 3 1 ഉം ആണ് ഇത് പറയുന്നത് ലൊക്കേഷൻ ഷെയർ ചെയ്യപ്പെട്ടു എന്നുതന്നെ ആണ് എല്ലാവർക്കും സ്വകാര്യതാ ക്രമീകരണങ്ങൾ ഒരുപോലെ ആണ് സജ്ജീകരിച്ചിരിക്കുന്നത് അല്ലെ ലൊക്കേഷൻ വിവരങ്ങൾ ഫേസ്ബുക്ക് ൽ പരമാവധി എല്ലാവരുമായി പങ്കിടുന്നു കൂടാതെ നിങ്ങൾ എല്ലാവരേയും സുഹൃത്തുക്കളാക്കുകയാണെങ്കിൽ വിവരങ്ങൾ അപ്പോൾ ഒരു വലിയ ശതമാനം ആളുകളുമായി പങ്കുവെക്കപ്പെടുന്നു അതായത് ലൊക്കേഷനിലൂടെ പങ്കിടുന്ന വിവരങ്ങൾ യഥാർത്ഥത്തിൽ നിങ്ങൾ ഇപ്പോൾ ചിന്തിക്കുന്നതിലും അപ്പുറമുള്ള കാര്യങ്ങൾക്കായി ഉപയോഗിക്കാനാകും എന്ന വസ്തുത ആണ് നിങ്ങളിലേക്ക് ഞാൻ എത്തിക്കാൻ ശ്രെമിക്കുന്നത് ധാരണകൾ വീണ്ടും അതേ സർവേയിലെ മറ്റൊരു ചോദ്യം പങ്കെടുത്തവരിൽ നിന്ന് ചില പ്രതികരണങ്ങൾ ലഭിക്കാൻ ആവശ്യപ്പെട്ട അതേ വിവരശേഖരണം യാത്ര ചെയ്യുമ്പോൾ മൊബൈൽ സേവന ദാതാക്കൾ പ്രാദേശിക ഭാഷയിൽ വിവരങ്ങൾ അവതരിപ്പിക്കാൻ ഉപയോഗിക്കുന്നു അതായത് ഉപയോക്താവ് തിരക്കിലാണ് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്തു ഉദാഹരണത്തിന് നിങ്ങളുടെ ഫോൺ കണക്ഷൻ ഡൽഹിയിൽ നിന്നാണെങ്കിൽ നിങ്ങൾ മുംബൈയിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ മറാത്തിയിലാണ് സന്ദേശങ്ങൾ അവതരിപ്പിക്കുന്നത് ഈ സവിശേഷത സ്വകാര്യതയ്ക്ക് മുകളിൽ ഉള്ള ഒരു കടന്നുകയറ്റം ആണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ നിങ്ങൾക്ക് ചോദ്യം മനസ്സിലായി എനിക്ക് ഉറപ്പുണ്ട് ഞാൻ ഡൽഹിയിൽ നിന്ന് വാങ്ങിയ ഒരു നമ്പർ എന്റെ പക്കലുണ്ടെന്നും ഞാൻ മുംബൈയിൽ യാത്ര ചെയ്യുകയാണെന്നും എന്റെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്നും മനസ്സിലാകില്ലേ എന്നാണ് എൻ്റെ ചോദ്യം ആരെങ്കിലും എന്നെ വിളിക്കുമ്പോൾ എൻറെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് പറയാൻ സന്ദേശങ്ങൾ ഉപകാരപ്പെടുന്നു പക്ഷേ അത് മറാത്തിയിൽ ആണ് ആ സന്ദേശം നൽകുന്നത് ഞാൻ കേരളത്തിൽ പോകുമ്പോഴും ഇതേ കാര്യം തന്നെ മുകളിൽ പറഞ്ഞ അതെ സന്ദേശം മലയാളത്തിലായിരിക്കും എന്ന് മാത്രം ഇത് ആരെങ്കിലും നിങ്ങളെ വിളിക്കാൻ ശ്രമിക്കുമ്പോൾ നിങ്ങൾ എവിടെയാണെന്ന് വെളിപ്പെടുത്തുന്നു ഇത് സ്വകാര്യതയിലേക്ക് കടന്നുകയറുന്നതാകാം കാരണം നിങ്ങൾ എവിടെയാണെന്നത് ചുരുങ്ങിയത് പ്രാദേശിക ഭാഷയിൽ എവിടെയാണെന്ന് കൃത്യമായി പറയുന്നു അതിനാൽ നിങ്ങളുടെ കാഴ്ച്ചപ്പാടിൽ ഈ സവിശേഷത സ്വകാര്യത ആക്രമണാത്മകമായി നിങ്ങൾ പരിഗണിക്കുമോ അവരിൽ 44 ശതമാനം പേർ പറയുന്നത് അത് സ്വകാര്യതയെ ആക്രമിക്കുന്നതാണെന്നും 42 ശതമാനം നിഷ്പക്ഷമാണെന്നും 19 ശതമാനം വിയോജിക്കുന്നു എന്നും 3 ശതമാനം ശക്തമായി വിയോജിക്കുന്നുവെന്നും 10 ശതമാനം ശക്തമായി യോജിക്കുന്നുവെന്നും പറയുന്നു അതിനാൽ നിങ്ങൾ സമ്മതിക്കുന്ന ആളുകളെ നോക്കിയാൽ അത് 54 ശതമാനമാണ് വിയോജിക്കുന്ന ആളുകൾ ഏകദേശം 22 23 ശതമാനമാണ് ബാക്കിയുള്ളവർ നിഷ്പക്ഷരാണ് ഈ ഡാറ്റയെല്ലാം ശേഖരിച്ചത് ഇന്ത്യയിൽ നിന്ന് മാത്രവുമാണ് ഈ പ്രശ്നങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്ന ഇന്ത്യയിൽ താമസിക്കുന്ന ഒരു വ്യക്തിയുടെ ധാരണകളാണ് സംസാരിക്കുന്നത് അതിനാൽ അടിസ്ഥാനപരമായി ലൊക്കേഷൻ അധിഷ്ഠിത സ്വകാര്യത എന്താണെന്നതിന്റെ ഒരു അർത്ഥമാണിത് ലൊക്കേഷൻ അധിഷ്ഠിത സ്വകാര്യതാ സേവനങ്ങൾ നിങ്ങൾക്ക് ഏതുതരം പ്രശ്നങ്ങളാണ് ഉണ്ടാക്കുന്നത് എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ നടത്തിയ ചില പ്രത്യേക ഗവേഷണങ്ങളെ കുറിച്ചാണ് പഠിക്കുന്നത് വിശകലനം ഡാറ്റ ശേഖരണം വിഷയം എന്താണ് ഇതുവരെ എന്തു ചെയ്തു ഏത് തരത്തിലുള്ള വിശകലനം നടത്തി ഏത് തരത്തിലുള്ള അനുമാനങ്ങൾ വരച്ചു എന്നതിനെക്കുറിച്ച് മാത്രം വിശദമായി പഠിക്കും ഈ കോഴ്സിൽ ഇതുവരെ നമ്മൾ പഠിച്ച സോഷ്യൽ മീഡിയ ഡാറ്റാ ടെക്നിക്കുകൾ എങ്ങനെ മെച്ചപ്പെട്ട രീതിയിൽ ഉപയോഗിക്കാമെന്നും അതുവഴി ഒരു മികച്ച ധാരണ ലഭിക്കുവാനും ഇത് നിങ്ങളെ സഹായിക്കും അതിനാൽ ഇപ്പോൾ ഈ പേപ്പറിൽ ആണ് നമ്മൾ സമയം ചെലവഴിക്കാൻ പോകുന്നത് പേപ്പറിന്റെ തലക്കെട്ട് 'നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നതെന്ന് ഞങ്ങൾക്കറിയാം ഫോർസ്ക്വയർ പെരുമാറ്റത്തിന്റെ സ്വകാര്യത സ്വഭാവം' എന്നാണ് നമ്മൾ പേപ്പറിൻറ്റെ ഉള്ളടക്കത്തിലൂടെ കടന്നുപോകുകയും പേപ്പറിൽ എന്താണ് സൂചിപ്പിച്ചിരിക്കുന്നതെന്ന് നോക്കുകയും അവമനസ്സിലാക്കുകയും ചെയ്യും യഥാർത്ഥത്തിൽ എന്താണ് സംഭവിക്കുന്നതെന്ന് ഞാൻ ചില ഉൾക്കാഴ്ചകൾ നൽകാം അപ്പോൾ ഞാൻ പറഞ്ഞതുപോലെ നമ്മൾ ലൊക്കേഷൻ അധിഷ്ഠിത സോഷ്യൽ നെറ്റ്വർക്കുകൾ നോക്കാൻ പോകുന്നു ഫോർസ്ക്വയർ ജനപ്രിയമായ ഒന്നാണ് ഫോർസ്ക്വയർ പ്രവർത്തിക്കുന്ന രീതി എന്തെന്നാൽ നിർദ്ദിഷ്ട സ്ഥലങ്ങളിൽ ചെക്ക് ഇന്നുകൾ ഉപയോഗിക്കുമ്പോൾ ഉപയോക്താക്കൾക്ക് എന്തെങ്കിലും പ്രോത്സാഹന സമ്മാനങ്ങൾ നൽകുന്നു അതിനാൽ ഒരു സന്ദർശനം ഒരു ചെക്ക് ഇൻ ആണ് നിങ്ങൾക്ക് ഒരു സ്ഥലത്തേക്ക് പോകണം ഉദാഹരണത്തിന് ഐഐടി ഡൽഹി ഒരു വേദിയാണ് നിങ്ങൾ ഐഐടി ഡൽഹിയിലേക്ക് വരുന്നു തുടർന്ന് നിങ്ങൾ ഒരു ചെക്ക് ഇൻ നടത്തുന്നു അവിടെ നിങ്ങൾ സ്ഥലം സന്ദർശിക്കുന്നു കൂടാതെ മേയർ സ്ഥാനം പതിവ് സന്ദർശനങ്ങൾക്കാണ് മേയർ പദവി എന്നാൽ കഴിഞ്ഞ 60 ദിവസത്തിനുള്ളിൽ ഏറ്റവും കൂടുതൽ തവണ ആ സ്ഥലത്തെത്തിയ വ്യക്തിയാണ് അതായത് കഴിഞ്ഞ 60 ദിവസങ്ങളിൽ ഏറ്റവും കൂടുതൽ തവണ അദ്ദേഹം ആ സ്ഥലത്ത് ചെക്ക് ഇൻ ചെയ്തു അതാണ് മേയർ സ്ഥാനവും ആളുകൾ പല കാരണങ്ങളാൽ മേയർ സ്ഥാനം കൈവരിക്കാൻ ശ്രമിക്കുകയും ചെയുന്നു യഥാർത്ഥത്തിൽ പ്രോത്സാഹനങ്ങളുണ്ട് എന്നതിനാലാണത് ഉദാഹരണത്തിന് നിങ്ങൾ ഏതെങ്കിലും മാളുകളിൽ പോയാൽ അവർ നിങ്ങൾക്ക് തരുന്ന സ്ഥലങ്ങളിലേക്ക് പോയാൽ നിങ്ങൾ ആ സ്ഥലത്തെ ഒരു മേയറാണെങ്കിൽ നിങ്ങൾക്ക് യഥാർത്ഥത്തിൽ കൂടുതൽ കിഴിവുകൾ ലഭിക്കും അല്ലെങ്കിൽ നിങ്ങൾക്ക് ആഴ്ചയിൽ സൌജന്യമായി ചില പാർക്കിംഗ് സ്ഥലങ്ങൾ ലഭിക്കും അങ്ങനെ അതിനാൽ ഒരു മേയർ ആകുന്നത് യഥാർത്ഥത്തിൽ നിങ്ങൾക്ക് ചില പ്രോത്സാഹനങ്ങൾ നൽകുന്നു അതിനാൽ ചെക്ക് ഇന്നുകൾ ആ സ്ഥലത്തേക്കുള്ള പ്രവർത്തനമാണ് വേദികൾ സ്ഥലമാണ് അല്ലെങ്കിൽ സ്ഥലങ്ങളാണ് അവർക്ക് നുറുങ്ങുകളും അവശേഷിപ്പിക്കാം ആളുകൾ ഈ സ്ഥലത്തേക്ക് ഞാൻ ചെക്ക് ഇൻ ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ഫോർസ്ക്വയറുകളിൽ ഇടുന്നു ഉദാഹരണത്തിന് ശരവണ ഭവൻ അവിടെ നിന്ന് ഭക്ഷണം കഴിച്ചിരുന്നു ഭക്ഷണം വളരെ നല്ലതായിരുന്നു എന്നൊക്കെ അത് ഒരു നുറുങ്ങാണ് നിങ്ങൾ ടിപ്പുകളിൽ യോജിക്കുന്നുവെങ്കിൽ ഫേസ്ബുക്കിലെ പോലെ അല്ലെങ്കിൽ ട്വിറ്ററിലെ റീ ട്വീറ്റ് അല്ലെങ്കിൽ ലൈക്ക് പോലെ ഫോർസ്ക്വയറിൽ ചെയ്തതുപോലെ ചെയ്തു അത് എനിക്ക് വീണ്ടും ഈ ടിപ്പ് ഇഷ്ടമാണെന്ന് പറയുന്നതിന് തുല്യമാണ് അതിനാൽ ചെക്ക് ഇന്നുകൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് മാത്രമേ ലഭ്യമാകൂ എന്നാണെങ്കിൽതന്നെയും മേയർഷിപ്പുകളുടെയും നുറുങ്ങുകളുടെയും ഉപയോക്താക്കളിൽ ഒരാളുടെ വിവരങ്ങളും എല്ലാവർക്കും പൊതുവായി ലഭ്യമാണ് അതിനാൽ അടിസ്ഥാനപരമായി ഈ വിവരങ്ങൾ ശേഖരിക്കാനും രസകരമായ ചില വിശകലനങ്ങൾ നടത്താനുമാണ് നമ്മൾ നോക്കുന്നത് ഫോർസ്ക്വയറിൽ നിന്ന് ഡാറ്റ ശേഖരിക്കുക അവ വിശകലനം ചെയ്യുക ചില രസകരമായ നിഗമനങ്ങൾ ഉണ്ടാക്കുക പ്രത്യേകിച്ച് ഫോർസ്ക്വയറിലെ സ്വകാര്യത പ്രശ്നങ്ങൾ നോക്കുക വെറും ചെക്ക് ഇൻ അല്ലെങ്കിൽ അവരുടെ ഫോർസ്ക്വയർ പെരുമാറ്റത്തിൽ നിന്ന് മാത്രം ആളുകൾ എവിടെയാണ് താമസിക്കുന്നതെന്ന് നമുക്ക് പരിശോധിക്കാനാകുമോ എന്നൊക്കെ മനസ്സിലാക്കാം ഈ പേപ്പർ അടിസ്ഥാനപരമായി പൊതുവായി ലഭ്യമായ ഈ സവിശേഷതകൾ പര്യവേക്ഷണം ചെയ്യുന്നു മേയർഷിപ്പുകൾ നുറുങ്ങുകൾ സംഭാവനകൾ വിവര ചോർച്ചയ്ക്കുള്ള അവയുടെ ഉപയോഗം എന്നാൽ ഈ പ്രത്യേക പേപ്പറിന്റെ രസകരമായ ഭാഗം യഥാർത്ഥത്തിൽ മുഴുവൻ ഫോർസ്ക്വയറിന്റെയും ഡാറ്റ ഉപയോഗിക്കുന്നു എന്നതാണ് ആ സമയത്ത് അത് 13 ദശലക്ഷം ഉപയോക്താക്കളാണ് ഈ പേപ്പറിൽ നിരവധി രസകരമായ നിഗമനങ്ങളുണ്ട് അവയെല്ലാം നമ്മൾ വിശദമായി നോക്കും എന്നാൽ അമൂർത്തമായി ആ നിഗമനങ്ങൾ സൂചിപ്പിക്കുന്നത് 58 മണിക്കൂറിനുള്ളിൽ വിശകലനം ചെയ്ത ഉപയോക്താക്കളിൽ 75 ശതമാനത്തിന്റെ ഹോം സിറ്റിയെ ഒരാൾക്ക് എളുപ്പത്തിൽ മനസ്സിലാക്കാൻ കഴിയും എന്നാണ് അതിനാൽ അത് യഥാർത്ഥത്തിൽ സ്വകാര്യതയെ ബാധിക്കുന്നതാണ് നിങ്ങളുടെ ചെക്ക് ഇൻ ലൊക്കേഷനും ഫോർസ്ക്വയർ വിവരങ്ങളും നോക്കി നിങ്ങൾ എവിടെയാണ് താമസിക്കുന്നതെന്ന് എനിക്ക് ശരിക്കും പറയാൻ കഴിയുമെങ്കിൽ അത് യഥാർത്ഥത്തിൽ സ്വകാര്യതയെ ബാധിക്കുന്നതാണ് ഈ സാഹചര്യത്തിൽ പൊതുവായി ലഭ്യമായ വിവരങ്ങൾ മാത്രമാണ് ഉപയോഗിക്കുന്നത് ദയവായി എന്നെ കൊള്ളയടിക്കുക ഡോട്ട് കോം pleaserobme com എന്നൊരു വെബ്സൈറ്റ് ഉണ്ടായിരുന്നു അത് കുറച്ച് സമയത്തിന് ശേഷം അവർ എടുത്തുകളഞ്ഞു ഈ വെബ്സൈറ്റ് രസകരമായ ചിലത് ചെയ്തു ഈ വെബ്സൈറ്റുകളുടെ സ്രഷ്ടാക്കൾ അടിസ്ഥാനപരമായി ട്വീറ്റുകൾ നോക്കി ഒരു ഉപയോക്താവ് ലൊക്കേഷൻ x നെക്കുറിച്ച് സംസാരിക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഉപയോക്താവിന്റെ അക്കൌണ്ട് ഉപയോക്തൃ ലൊക്കേഷൻ സൃഷ്ടിച്ചെങ്കിൽ നിങ്ങൾക്ക് ട്വിറ്ററിൽ യഥാർത്ഥത്തിൽ ലഭിക്കുന്ന വിവരങ്ങൾ ആ വിവരങ്ങളുമായി ഒരു വ്യക്തി ഡൽഹിയിൽ ഒരു അക്കൌണ്ട് സൃഷ്ടിച്ചുവെന്നും അവൻ ചെന്നൈയിലെ ഒരു കാലാവസ്ഥയെക്കുറിച്ചാണ് സംസാരിക്കുന്നതെന്നും അവർ വീട്ടിലില്ലാത്തതിന്റെ സാധ്യതയാണ് അവർ പറയുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ചെക്ക് ഇൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഡൽഹിയിൽ നിന്ന് നിങ്ങളുടെ ജിയോലൊക്കേഷനുമായി ട്വീറ്റിൽ ഒരു പോസ്റ്റ് ചെയ്യുകയും ഏതാനും മണിക്കൂറിനുള്ളിൽ നിങ്ങൾ ചെന്നൈയിലെ കാലാവസ്ഥയെക്കുറിച്ചും വീണ്ടും സംസാരിക്കുന്നു എന്നിരിക്കട്ടെ അതായത് നിങ്ങൾ വീട്ടിൽ ഇല്ലാതിരിക്കാനുള്ള സാധ്യതയാണ് അത് കാണിക്കുന്നത് നിങ്ങൾ ഡൽഹിയിൽ നിന്ന് ചെന്നൈയിലേക്ക് മാറി എന്ന് മനസ്സിലാക്കാൻ കഴിയും അതിനാൽ അവർ ഈ വിഭാഗത്തിലെ ട്വീറ്റുകളും ലൊക്കേഷൻ x കാലാവസ്ഥ അല്ലെങ്കിൽ മറ്റ് വിവരങ്ങൾ ഉപയോഗിക്കുന്നു ഉദാഹരണത്തിന് ട്രാഫിക് അല്ലെ നിങ്ങൾ ചെന്നൈയിൽ നിന്നാണ് നിങ്ങൾ ഡൽഹിയിലെ ട്രാഫിക്കിനെ കുറിച് പോസ്റ്റുചെയ്യുമ്പോൾ നിങ്ങൾ ഈ സ്ഥലത്തേക്ക് പോവുകയാണെന്നും നിങ്ങൾ യഥാർത്ഥത്തിൽ ഡൽഹിയിലാണെന്നതിന് ഉയർന്ന സാധ്യതയുണ്ടെന്നും ട്വീറ്റിൽ പറയുന്നു ഈ വിവരങ്ങളെല്ലാം ഉപയോഗിച്ച് ഈ ട്വീറ്റ് പോസ്റ്റ് ചെയ്യുന്ന ഈ പ്രത്യേക ഉപയോക്താവ് ലൊക്കേഷനിൽ തന്റെ വീട്ടിലില്ലെന്നും അതിനാൽ അവർ ഇതുപോലെ ഉള്ള പോസ്റ്റ് എടുക്കുകയും മോഷ്ടാക്കൾക്ക് പോകാൻ ദയവായി എന്നെ കൊള്ളയടിക്കുക എന്ന ഈ വെബ്സൈറ്റിൽ കാണിക്കുകയും ചെയ്യും ദയവായി എന്നെ കൊള്ളയടിക്കുക എന്ന ഉദാഹരണത്തിൽ നിന്ന് വീണ്ടും മറ്റൊരു വിവര ചോർച്ച നിങ്ങളുടെ ലൊക്കേഷനെക്കുറിച്ചുള്ള വിവരങ്ങളുടെ മറ്റൊരു സ്വാധീനം എത്രത്തോളം ഉണ്ടെന്ന് കാണാൻ കഴിയും അതിനാൽ ഫോഴ്സ്ക്വയർ എന്താണെന്നതിനെക്കുറിച്ച് പൊതുവായി ഈ പേപ്പറിൽ സംസാരിക്കുന്നതിനാൽ ക്ലാസിലെ വിദ്യാർത്ഥികളുടെ പ്രയോജനത്തിനായി ഞാൻ നോക്കാൻ പോകുന്ന ഭാഗങ്ങൾ ഹൈലൈറ്റ് ചെയ്തിട്ടുണ്ട് പക്ഷേ നിങ്ങൾക്ക് മുഴുവൻ പേപ്പറും നോക്കാവുന്നതാണ് പ്രഭാഷണങ്ങളുടെ സമയ പരിമിതിയുള്ളതിനാൽ ഞാൻ ഇവിടെ ഹൈലൈറ്റ് ചെയ്തവ മാത്രം ഇപ്പോൾ നോക്കാൻ പോകുന്നു അതിനാൽ ഇതുപോലുള്ള പേപ്പറുകൾ എഴുതാൻ താൽപ്പര്യമുള്ള ആളുകൾക്ക് അതിന്റെ ഘടന അമൂർത്തമാണ് പിന്നെ ആമുഖം ആമുഖം പേപ്പറിൽ എന്താണെന്ന് നിങ്ങൾ പൊതുവെ സംസാരിക്കുന്നു ഡൊമെയ്നിനെക്കുറിച്ച് കുറച്ച് പശ്ചാത്തലം നൽകുക ഈ സാഹചര്യത്തിൽ ഓൺലൈൻ സോഷ്യൽ മീഡിയയാണ് പിന്നെ ലൊക്കേഷൻ അധിഷ്ഠിത സേവനങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നു തുടർന്ന് കുറച്ച് വിവരങ്ങൾ നൽകുന്നു അതിനാൽ ഇത് രണ്ടും ആയിരിക്കണം വിഷയത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ നൽകുന്നത് ലൊക്കേഷൻ അധിഷ്ഠിത സേവനങ്ങൾ അതായത് എത്ര എത്രപേർ ഇത് ഉപയോഗിക്കുന്നുവെന്ന് പറയണം എന്ത് ആഘാതം ആണത് ഉണ്ടാക്കുന്നതെന്നും പിന്നെ നിങ്ങൾ ചെയ്ത രീതിശാസ്ത്രം പരാമർശിക്കുന്നു അതിനാൽ അടിസ്ഥാനപരമായി ആമുഖം പേപ്പറിന്റെ ബാക്കിയുള്ള ഒരു ചുരുക്കിയ പതിപ്പായിരിക്കും അത് രീതിശാസ്ത്രം അനുമാനങ്ങൾ സംഭാവനകൾ നിഗമനങ്ങൾ എന്നിവ ഉൾക്കൊള്ളുന്നു പേപ്പർ പ്രത്യേകമായി അഭിസംബോധന ചെയ്യുന്ന ചോദ്യം എന്തെന്നാൽ ഉപയോക്താവ് വെളിപ്പെടുത്താതിരിക്കാൻ തിരഞ്ഞെടുത്തേക്കാവുന്ന ഒരു സ്വകാര്യ ഡാറ്റയാണെങ്കിൽപ്പോലും മേയർഷിപ്പുകൾ നുറുങ്ങുകൾ ചെയ്തവ തുടങ്ങിയ പൊതുവായി ലഭ്യമായ വിവരങ്ങളിൽ നിന്ന് ഫോഴ്സ്ക്വയറിലെ ഒരു ഉപയോക്താവിന്റെ ഹോം സിറ്റിയെ നമുക്ക് അപ്പോഴും അനുമാനിക്കാൻ കഴിയുമോ എന്നതാണ് അതിനാൽ അതാണ് ചോദ്യം തുടർന്ന് പേപ്പറിൽ ബന്ധപ്പെട്ട ജോലി എന്ന് വിളിക്കുന്ന ഒന്നുണ്ട് അത് ആമുഖത്തിൽ ചോദിക്കുന്ന ചോദ്യത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു നിങ്ങൾ പൊതുവെ വളരെ അസ്പഷ്ടമായ രീതിയിൽ അത് അവതരിപ്പിക്കുന്നു ഇതാണ് പ്രശ്നം ഇതിലാണ് ഞങ്ങൾ പ്രവർത്തിക്കാൻ ഉദ്ദേശിക്കുന്നത് അനുബന്ധ ജോലികളിൽ നിങ്ങൾ പേപ്പറിൽ കാണിക്കാൻ പോകുന്ന വിഷയത്തിൽ മാത്രം ശ്രദ്ധ കേന്ദ്രീകരിക്കുകയും അതുമായി ബന്ധപ്പെട്ട പഴയ എഴുത്തുകളെക്കുറിച്ച് സംസാരിക്കുകയും ചെയ്യുക അതിനാൽ ഈ സാഹചര്യത്തിൽ ചെക്ക് ഇന്നുകളിലൂടെ ഒരു നഗരത്തിന്റെ നഗരവികസനത്തിന്റെ നേരിട്ടുള്ള വിശകലനം പോലും മനുഷ്യ ചലനരീതികൾ ആളുകൾ എങ്ങനെ ഉപയോഗിച്ചു എന്നതിനെക്കുറിച്ച് രചയിതാക്കൾ സംസാരിക്കുന്നു നഗരത്തിന്റെ സ്വഭാവവും ഫോഴ്സ്ക്വയർ പോലുള്ള ഒരു ലൊക്കേഷൻ അധിഷ്ഠിത സോഷ്യൽ നെറ്റ്വർക്കിൽ ആളുകൾ യഥാർത്ഥത്തിൽ സോഷ്യൽ നെറ്റ്വർക്ക് എങ്ങനെ ഉപയോഗിച്ചുവെന്നും ഫോഴ്സ്ക്വയർ ഡാറ്റ ഉപയോഗിച്ച് മനസ്സിലാക്കാൻ കുറച്ച് പ്രയാസമാണ് യഥാർത്ഥത്തിൽ ആളുകൾ ഗവേഷകർ ഒരു നഗരം രൂപകൽപ്പന ചെയ്യാൻ പോലും ഫോർസ്ക്വയറിന്റെ വിവരങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ട് അതിനാൽ നിങ്ങൾക്ക് ശെരിക്കും താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് livelihoods org എന്ന ഈ പദ്ധതി നോക്കാം ഫോർസ്ക്വയർ വിവരങ്ങൾ ഉപയോഗിച്ച് ഒരു നഗരത്തിൽ ആളുകൾ എങ്ങനെ നീങ്ങുന്നുവെന്ന് കാണാനും ഈ വിവരങ്ങൾ മനസ്സിൽ വച്ചുകൊണ്ട് നമുക്ക് യഥാർത്ഥത്തിൽ ഒരു നഗരം വീണ്ടും രൂപകൽപ്പന ചെയ്യാനും സാധിക്കുന്ന ഒരു പ്രോജക്റ്റാണിത് ഇപ്പോൾ ഫോർസ്ക്വയർ ഡാറ്റാസെറ്റിന്റെ അടിസ്ഥാനത്തിൽ മാത്രം നമക്ക് കൂടുതൽ സൂക്ഷ്മമായി നോക്കാം വിശകലനം നന്നായി മനസിലാക്കാൻ നിങ്ങൾ ചില പദങ്ങളെക്കുറിച്ച് അറിഞ്ഞിരിക്കണം അതിനാൽ നമ്മൾ ഇതിനോടകം പറഞ്ഞുകഴിഞ്ഞ അവയെ ഞാൻ ഇവിടെ വിശദീകരിക്കാൻ പോകുന്നു അപ്പോൾ ചെക്ക് ഇൻ എന്നാൽ എവിടെയാണോ അംഗങ്ങൾക്ക് സുഹൃത്തുക്കൾക്കും അനുയായികൾക്കും ലൊക്കേഷൻ പങ്കിടാൻ കഴിയുന്നത് അതാണ് ചെക്ക് ഇൻ ഒരു ഉപയോക്താവ് ഒരു നിർദ്ദിഷ്ട സ്ഥലത്തിനടുത്തായിരിക്കുമ്പോൾ ജിപിഎസ് ഉള്ള ഉപകരണങ്ങൾ വഴിയാണ് ചെക്ക് ഇന്നുകൾ നടത്തുന്നത് ഇത് ഒരു വേദിയാണ് എന്ന് ഞാൻ മുൻപ് പറഞ്ഞിട്ടുണ്ട് അതിനാൽ സ്ഥലങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾ വന്ന് ചെക്ക് ഇൻ ചെയ്യുന്ന വിമാനത്താവളങ്ങളോ റെസ്റ്റോറന്റുകളോ സ്മാരകങ്ങളോ എന്തും ആകാം ഇവിടെ ഫോർസ്ക്വയറിന്റെ രസകരമായ വശം അവർ അത് കൂടുതൽ ഗാമിഫൈ ചെയ്തു എന്നതാണ് ഇത് അടിസ്ഥാനപരമായി കൂടുതൽ പ്രോത്സാഹനം ലഭിക്കുന്ന ഉപയോക്താക്കൾക്ക് പ്ലാറ്റ്ഫോമിൻറ്റെ ഈ ഗെയിമിഫിക്കേഷൻ സ്വഭാവത്തിലൂടെ കൂടുതൽ ആസക്തി ഉണ്ടാക്കുന്നു അതായത് ബാഡ്ജുകൾ മേയർഷിപ്പുകൾ ലഭിക്കുന്നു അങ്ങനെ ഒക്കെ ആദ്യമായി വരുന്ന ഒരാൾക്കു ന്യൂബി ബാഡ്ജ് ലഭിക്കുന്നു രാത്രി വൈകി അതിരാവിലെ തന്നെ സിസ്റ്റം പരിശോധിക്കുന്ന ഒരാൾ അങ്ങനെ മേയർ സ്ഥാനത്തിനായി സിസ്റ്റം സ്ലൈഡ് ഫോഴ്സിൽ നൽകാവുന്ന വ്യത്യസ്ത ബാഡ്ജുകൾ ഉണ്ടായിരുന്നു രണ്ടാമതായി ഒരു നിർദ്ദിഷ്ട വേദിയിൽ ചെക്ക് ഇൻ ചെയ്യുന്ന അല്ലെങ്കിൽ മുൻകൂട്ടി നിശ്ചയിച്ചിട്ടുള്ള നിരവധി ചെക്ക് ഇന്നുകൾ നേടുന്ന ഉപയോക്താക്കൾക്ക് ബാഡ്ജുകളോ മെഡലുകളോ പോലുള്ളവ ലഭിക്കുന്നു ഞാൻ പറഞ്ഞ നുറുങ്ങുകൾ ഉപയോക്താക്കൾക്ക് അനുബന്ധ ഭൌതിക സ്ഥലങ്ങൾ സന്ദർശിക്കുമ്പോൾ അവരുടെ മുൻകാല അനുഭവങ്ങളെക്കുറിച്ച് വിശദീകരിക്കുന്ന നിർദ്ദിഷ്ട വേദികളിൽ നുറുങ്ങുകൾ പോസ്റ്റ് ചെയ്യാം മറ്റ് ഉപയോക്താക്കൾക്ക് സന്ദർശിക്കാൻ സ്ഥലങ്ങൾ തിരഞ്ഞെടുക്കാൻ ടിപ്പുകൾ സഹായിക്കുന്നു അതിനാൽ നിങ്ങൾ ഒരു റെസ്റ്റോറന്റിൽ പോയി ഭക്ഷണം കഴിച്ചാൽ ഭക്ഷണം നല്ലതാണെന്നോ അല്ലെങ്കിൽ ഭക്ഷണം മോശമാണെന്നോ മറ്റുള്ളവർക്ക് ഫീഡ്ബാക്ക് നൽകാൻ നിങ്ങൾക്ക് കഴിയുന്നു അതിനാൽ മറ്റുള്ളവർക്ക് ഈ റെസ്റ്റോറന്റിലേക്ക് പോകാൻ താൽപ്പര്യപ്പെടുമ്പോൾ അത് ഒരു ടിപ്പ് ആക്കുന്നതിന് അവർക്ക് ഫീഡ്ബാക്ക് ഉപയോഗിക്കാൻ കഴിയും അതിനാൽ മുമ്പ് പോസ്റ്റുചെയ്ത ടിപ്പ് വായിച്ചതിന് ശേഷം ഒരു വേദിയുടെ പേജ് സന്ദർശിക്കുമ്പോൾ ഉപയോക്താവിന് അത് പൂർത്തിയായതായി അടയാളപ്പെടുത്താം അല്ലെങ്കിൽ കരാറിനായി ഒപ്പിടാം നുറുങ്ങുകളുടെ ഉള്ളടക്കം അല്ലെങ്കിൽ ഭാവിയിൽ ലൊക്കേഷൻ സന്ദർശിക്കാൻ ഉദ്ദേശിക്കുമ്പോൾ അതിനാൽ ഞാൻ ഈ നുറുങ്ങ് കണ്ടുവെന്ന് ഇത് പ്രധാനമായും പറയുന്നു നുറുങ്ങ് യഥാർത്ഥത്തിൽ എനിക്ക് വളരെ ഉപകാരപ്രദമാണ് അതിനാൽ പൂർത്തിയാക്കിയ ഒരു ബട്ടൺ അല്ലെങ്കിൽ ഭാവിയിൽ എനിക്ക് ഈ സ്ഥലത്തേക്ക് പോകാൻ ആഗ്രഹിക്കുന്നു എന്നുണ്ടെങ്കിൽ അത് നിലനിർത്താൻ കഴിയും